ഈ പ്രഭാഷണത്തിൽ വിഎൽഎസ്ഐ ഫിസിക്കൽ ഡിസൈനിലെ പ്ലെയ്സ്മെന്റ് പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഞങ്ങൾ തുടരുന്നു അതിനാൽ പ്രഭാഷണത്തിന്റെ ഈ രണ്ടാം ഭാഗത്ത് ആദ്യം പ്ലേസ്മെന്റിലെ ചില ഡിസൈൻ ശൈലിയിലുള്ള പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വിഎൽഎസ്ഐ ഫിസിക്കൽ ഡിസൈനിലെ പല ഘട്ടങ്ങളും നിങ്ങളുടെ അന്തിമ ലെ ഔട്ട്സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ പിന്തുടരുന്ന കൃത്യമായ ഡിസൈൻ ശൈലിയെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ഒരു പൂർണ്ണ ഇച്ഛാനുസൃതമാകുമ്പോൾ അത് സെമി കസ്റ്റം സ്റ്റാൻഡേർഡ് സെൽ അധിഷ്ഠിതം ഗേറ്റ് ചെയ്യാവുന്നതോ എഫ്പിജിഎ അടിസ്ഥാനമാക്കിയുള്ളതോ ആകാം അതിനാൽ ഡിസൈൻ ശൈലി തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ പ്ലെയ്സ്മെന്റ് ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ എങ്ങനെ ബാധിക്കുമെന്നോ ബന്ധപ്പെട്ട പ്ലെയ്സ്മെൻറിനൊപ്പം ഞങ്ങൾ ഇവിടെ കാണും അതിനാൽ പ്ലെയ്സ്മെന്റ് പ്രശ്നത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ ഇത് ഉപയോഗിച്ച ഡിസൈൻ ശൈലിയെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ഇത് കാണുന്നു സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻ ശൈലിയിൽ ഫ്ലോർപ്ലാനിംഗും പ്ലെയ്സ്മെന്റ് പ്രശ്നങ്ങളും ഒന്നുതന്നെയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു സാധാരണ സെൽ അധിഷ്ഠിത രൂപകൽപ്പനയിൽ നിങ്ങൾക്ക് ഒരു സെൽ ഇടാൻ കഴിയുന്ന സ്ഥലങ്ങൾ പരിമിതമാണെന്നത് നിങ്ങൾ ഓർക്കുന്നു അത് വരികളിലൂടെ മാത്രമേ സെല്ലുകൾ സ്ഥാപിക്കാൻ കഴിയൂ അതിനാൽ ഞങ്ങൾ ഫ്ലോർപ്ലാനിംഗിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾഈ സെല്ലുകൾക്കായി നിങ്ങൾ താൽക്കാലികമായി ഒരു സ്ഥാനം നൽകുന്നു ഇപ്പോൾ ആ സ്ഥാനം തന്നെ ആ വരികളിലൊന്നിൽ ആയിരിക്കണം അതിനാൽ നിങ്ങൾ ഒരു വരിയിൽ ഒരു സെൽ ഇട്ടാൽ നിങ്ങൾ പ്ലെയ്സ്മെന്റും പൂർത്തിയാക്കുന്നു കാരണം പ്ലെയ്സ്മെന്റും ഇതേ അർത്ഥമാക്കും സെല്ലുകളെ ഒരു വരികളിൽ സ്ഥാപിക്കുക അതിനാൽ ഫ്ലോർപ്ലാനിംഗും പ്ലെയ്സ്മെന്റും യഥാർത്ഥത്തിൽ ഒരു വ്യത്യാസവും വരുത്താത്ത ഒരു ഡിസൈൻ ശൈലി ഉദാഹരണമുണ്ട് അതിനാൽ പ്രത്യേക സമ്പൂർണ്ണ കസ്റ്റംസ് സ്റ്റാൻഡേർഡ് സെൽ ഗേറ്റ് അറേ എന്നിവയിലെ ASIC ഡിസൈൻ ശൈലികളും പ്ലേസ്മെന്റിനായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങളും ഞങ്ങൾ ചർച്ചചെയ്യുന്നു അതിനാൽ ഞങ്ങൾ പാരമ്പര്യ രീതിയിൽ ആരംഭിക്കുന്നു ഇപ്പോൾ പാരമ്പര്യ രീതിയിൽ ഞങ്ങൾ ഈ സിലിക്കൺ ഫ്ലോർ ഉള്ള തികച്ചും അനിയന്ത്രിതമായ ഒരു ഡിസൈൻ ശൈലി കണ്ടിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്ലോക്കും സ്ഥാപിക്കാൻ കഴിയും കൂടാതെ ബ്ലോക്കുകളുടെ ആകൃതികൾ വലുപ്പങ്ങൾ വീക്ഷണ അനുപാതം എന്നിവ വ്യത്യാസപ്പെടാം സ്വയം നിയന്ത്രണങ്ങളൊന്നുമില്ല തീർച്ചയായും നിങ്ങൾക്ക് മറ്റ് ഡിസൈൻ ശൈലികളും ചില ഭാഗങ്ങൾ ഒരു സാധാരണ സെൽ ബേസ് ആകാം അതിനാൽ നിങ്ങൾക്ക് ലഭ്യമായ ലേഔട്ട്പ രിധിക്കുള്ളിൽ വിവിധ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള നിരവധി ബ്ലോക്കുകൾ സ്ഥാപിക്കുന്നതാണ് പ്ലെയ്സ്മെന്റ് പ്രശ്നം ഇപ്പോൾ ബ്ലോക്ക് ആകൃതികൾ വളരെ സാധാരണമായിരിക്കില്ല അതിനാൽ ചില പ്രദേശം ഉപയോഗശൂന്യമായി തുടരാം പൂർണ്ണമായ ഇഷ്ടാനുസൃത ഡിസൈൻ ശൈലിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും നിങ്ങൾക്ക് ഫ്ലോർ പ്ലാനിംഗും പ്ലേസ്മെന്റ് ഘട്ടങ്ങളും വ്യക്തമായി ആവശ്യമാണ് എന്നിരുന്നാലും ഞങ്ങൾ ഉപയോഗിക്കുന്ന അൽഗോരിതം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്ലെയ്സ്മെന്റ് ആരംഭിക്കാൻ കഴിയുന്ന നിരവധി ആവർത്തനങ്ങൾ ആവശ്യമായി വന്നേക്കാം നിങ്ങൾ ഒരു ആവർത്തന പ്രക്രിയയിൽ പ്ലെയ്സ്മെന്റിന്റെ ഗുണനിലവാരം തുടർച്ചയായി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു ഓരോ ഘട്ടത്തിലും ലെ ഔട്ട് അൽപ്പം പരിഷ്ക്കരിക്കുന്നു ഇപ്പോൾ ഫ്ലോർ പ്ലാനിംഗും പ്ലേസ്മെന്റ് നടപടികളും പൂർണ്ണ കസ്റ്റമിൽ ആവശ്യമാണ് കൃത്യമായി എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ നമുക്ക് വീണ്ടും ഒരു ഉദാഹരണം എടുക്കാം ഞങ്ങൾ ഫ്ലോർ പ്ലാനിംഗിനെക്കുറിച്ച് സംസാരിക്കുന്നു A ബ്ലോക്ക് ഉണ്ട് B ബ്ലോക്ക് ഉണ്ട് C D ബ്ലോക്കുകൾ ഉണ്ട് ഈ 4 ബ്ലോക്കുകളുടെ ഫ്ലോർപ്ലാനിന്റെ ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഉദാഹരണമാണിത് ഇപ്പോൾ പ്ലെയ്സ്മെന്റിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ ബ്ലോക്കുകളുടെ കൃത്യമായ ആകൃതിയും വലുപ്പവും നിർവചിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ റൂട്ടിംഗിനായി കുറച്ച് അധിക സ്ഥലം സൂക്ഷിക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പ്ലെയ്സ്മെന്റ് ഇതുപോലെയാകാം ഇത് നിങ്ങളുടെ ബ്ലോക്ക് എ ആയിരിക്കും ഇത് നിങ്ങളുടെ ബ്ലോക്ക് ബി ആകാം നിങ്ങളുടെ ബ്ലോക്ക് സി ഇതുപോലെയാകാം നിങ്ങളുടെ ബ്ലോക്ക് ഡി ചെറുതായിരിക്കാം നമുക്ക് ഇത് ഇങ്ങനെ പറയാം അതിനാൽ ഒരു പ്ലെയ്സ്മെന്റിന്റെ ഈ ഉദാഹരണത്തിൽ നിങ്ങൾ ഇവിടെ കാണുന്നു ഇത് ഒരു പ്ലെയ്സ്മെന്റാണ് അതിനാൽ ഒരു പ്ലെയ്സ്മെന്റിന്റെ ഈ ഉദാഹരണത്തിൽ ബ്ലോക്കുകൾക്കിടയിലും ചുറ്റുമുള്ള ചില ഇടങ്ങളും നിങ്ങൾ വ്യക്തമായി സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് റൂട്ടിംഗോ പരസ്പരബന്ധങ്ങളോ ശരിയായി പൂർത്തിയാക്കാൻ കഴിയും കൂടാതെ ബ്ലോക്കുകളുടെ ആകൃതികളുടെയും വലുപ്പങ്ങളുടെയും അസമത്വം കാരണം നിങ്ങൾ കാണും ഇവിടെ ഉപയോഗിക്കാത്ത ചില മേഖലകളുണ്ട് അതിനാൽ ഞങ്ങൾ ഈ പ്രദേശത്തിന്റെ യഥാർത്ഥ ഭാഗം ഉപയോഗിക്കുന്നില്ല അതിനാൽ പൂർണ്ണ കസ്റ്റം ഡിസൈനിലുള്ള പ്ലെയ്സ്മെന്റിന്റെ സവിശേഷതകളിലൊന്നാണിത് അപ്പോൾ ചില മേഖലകൾ പാഴായിപ്പോകാം അടുത്തതായി നമുക്ക് ഈ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻ ശൈലിയിലേക്ക് വരാം അതിനാൽ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഫ്ലോർ പ്ലാനിംഗിന്റെയും പ്ലേസ്മെന്റിന്റെയും പ്രശ്നം ഒന്നുതന്നെയാണ് അതിനാൽ വീണ്ടും ഞാൻ ഈ കാര്യം വ്യക്തമാക്കാം ഈ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻ ശൈലിയിൽ നിങ്ങളുടെ ലെ ഔട്ട് ഏരിയ ഇതുപോലെ കാണപ്പെടും അവിടെ സ്റ്റാൻഡേർഡ് സെല്ലുകളിൽ ഓരോന്നായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിരവധി വരികൾ ഉണ്ടാകും അതിനാൽ ഞാൻ രണ്ട് വരികൾ കാണിക്കുന്നു ഇപ്പോൾ എനിക്ക് ചില സ്റ്റാൻഡേർഡ് സെല്ലുകൾ ഉണ്ടെന്ന് കരുതുക അതിനാൽ ഇതുപോലുള്ള ഒരു ആകൃതി അൽപ്പം കുറവ് വീതി പോലെ അതിനാൽ അവരെ എവിടെയെങ്കിലും വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഫ്ലോർ പ്ലാനിംഗിൽ ഈ ബ്ലോക്കുകളുടെ ഒരു താൽക്കാലിക സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് ഈ ബ്ലോക്ക് 1 എന്ന് വിളിക്കാം നമുക്ക് ഈ ബ്ലോക്ക് 2 എന്ന് വിളിക്കാം ഇപ്പോൾ ഡിസൈൻ ശൈലിയിലുള്ള പരിമിതി കാരണം ഫ്ലോർ പ്ലാനിംഗിനിടെ നിങ്ങൾ കാണുന്നു ഞങ്ങളുടെ ഈ ബ്ലോക്കുകൾ ഈ സ്റ്റാൻഡേർഡ് സെൽ വരികളിൽ മാത്രം സ്ഥാപിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു പ്ലെയ്സ്മെന്റിലും ഞങ്ങൾ ഒരേ കാര്യം ചെയ്യേണ്ടതുണ്ട് ഇതാണ് നിങ്ങൾക്ക് മാത്രമേ ബ്ലോക്ക് സ്ഥാപിക്കാൻ കഴിയൂ അതിനാൽ ഫ്ലോർ പ്ലാനിംഗിനിടെ നിങ്ങൾ എന്താണ് ചെയ്തത് പ്ലെയ്സ്മെന്റ് സമയത്തും ഞങ്ങൾ എന്തായിരിക്കണം അതിനാൽ സ്റ്റാൻഡേർഡ് സെൽ ഡിസൈനിന്റെ കാര്യത്തിൽ രണ്ട് പ്രശ്നങ്ങളും ഒന്നുതന്നെയാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഉദ്ദേശ്യം മൊത്തത്തിലുള്ള ലെ ഔട്ട് ഏരിയയെ ചെറുതാക്കുക എന്നതാണ് ലെ ഔട്ട് ഏരിയ എന്നാൽ നിങ്ങളുടെ പരസ്പരബന്ധം സങ്കീർണത കുറയ്ക്കുന്ന വിധത്തിൽ നിങ്ങൾ ബ്ലോക്കുകൾ അനുവദിച്ചിട്ടുണ്ട് അതിനർത്ഥം നിങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ആവശ്യമായ ട്രാക്കുകളുടെ എണ്ണം അതായത് ചാനലുകൾ ചില ചാനൽ ഉയരങ്ങൾ ചെറുതാക്കുക ഈ ഡയഗ്രാമിലേക്ക് വീണ്ടും വരുന്നത് പോലെ ചാനലിന്റെ ഉയരം ഇതാണ് ഇന്റർകണക്ഷൻ വയറുകൾ സ്ഥാപിക്കേണ്ട സ്ഥലമാണിത് ഇവിടെ എത്ര ട്രാക്കുകൾ സ്ഥാപിക്കും എന്നതിനെ ആശ്രയിച്ച്ആ യിരിക്കും ചാനലിന്റെ ഉയരം അതിനാൽ നിങ്ങൾക്ക് കുറച്ച് ട്രാക്കുകൾ ആവശ്യമുള്ള രീതിയിൽ ബ്ലോക്ക് നൽകുന്നത് ഒരു ലക്ഷ്യമായിരിക്കും അതിനാൽ ചാനലിന്റെ ഉയരം കുറവായിരിക്കും തീർച്ചയായും വിശാലമായ വരിയുടെ വീതി കുറയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സ്റ്റാൻഡേർഡ് സെൽ ഡിസൈൻ പോലെ എല്ലാ വരികളും ഒരേ വീതിയുള്ളതാണ് അഭികാമ്യം അത് നിങ്ങൾക്ക് ഈ പ്രദേശത്തിന്റെ ഏറ്റവും മികച്ച ഉപയോഗം നൽകും പക്ഷേ വീണ്ടും അൽപ്പം ഉണ്ടാകാം അവസാനം അസമമായ ബ്ലോക്കുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ അവിടെ ഒരു ചെറിയ പൊരുത്തക്കേട് ഉണ്ടാകാം അതിനാൽ വീതികൾക്കിടയിൽ വളരെയധികം വ്യത്യാസമുണ്ടാകാത്ത ഒരു ചെറിയ പൊരുത്തക്കേട് പോലും സ്റ്റാൻഡേർഡ് സെൽ ലേ ഔട്ടിലെ ഏറ്റവും വിശാലമായ വരി കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഇതാണ് ഞാൻ പരാമർശിച്ചഅവസാന പോയിന്റ് സെൽ റൂട്ടിംഗിന് മുകളിൽ എന്തോ ഉണ്ട് ഇത് സങ്കീർണ്ണമായ റൂട്ടിംഗ് അൽഗോരിതങ്ങളിൽ ഒരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് മിക്കവാറും ചാനൽ ലെസ്സ് ഡിസൈനുകൾ എന്ന് വിളിക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഡയഗ്രാമിൽ നിങ്ങൾ പരസ്പരബന്ധങ്ങൾക്കായി ഒരു പ്രത്യേക പ്രദേശം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കാണാം അതിനാൽ ഈ കേസിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് തിരശ്ചീനവും ലംബവുമായ വരികൾ രണ്ട് വ്യത്യസ്ത പാളികളായി ക്രമീകരിക്കുകയും നിങ്ങൾ ഇതുപോലെ കണക്ഷനുകൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ കണക്ഷനുകൾ മെറ്റൽ ലെയറുകളിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അവ സാധാരണയായി യഥാർത്ഥ ട്രാൻസിസ്റ്ററുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന പാളി ഉപരിതലത്തിൽ ആണ് ഇത്പോളിസിലിക്കൺ ആണ് ഈ ലെയറുകളിലെ ഡിഫ്യൂഷൻ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് അതിനാൽ ലോഹ പാളികൾ എന്തായാലും അവ ട്രാൻസിസ്റ്ററുകൾക്ക് മുകളിലുള്ള നമ്മുടെ പാളിയിൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് അതിനാൽ അവ ട്രാൻസിസ്റ്ററുകൾക്ക് മുകളിലായതിനാൽ ഇതുപോലുള്ള പരസ്പരബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് ആരും നിങ്ങളെ തടയുന്നില്ല ഇവിടെ ചില പോയിന്റുകൾ പറയാം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പരസ്പരബന്ധം ഉണ്ടാക്കാൻ കഴിയും അതായത് സെല്ലിന് മുകളിലൂടെ നിങ്ങൾ സെല്ലിന് മുകളിലുള്ള ഇന്റർകണക്ഷൻ ലൈനുകൾ മറ്റൊരു ലെയറിൽ വരയ്ക്കുന്നു ഇതിനെ സെൽ റൂട്ടിംഗ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ടിംഗ് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ സെൽ രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രത്യേക ചാനൽ ആവശ്യമില്ല അതിനാൽ നിങ്ങൾക്ക് ഫലത്തിൽ ഒരു ചാനലിന് സ്റ്റാൻഡേർഡ് സെല്ലിന്റെ കുറഞ്ഞ ലേ ഔട്ട് ലഭിക്കും അത് കൂടുതൽ മികച്ചതായിരിക്കും അതിനാൽ അടുത്ത ഒരു ഗേറ്റ് അറേകളുമായി തുടരുന്നു ഇത് ആണ് ഞങ്ങളുടെ പക്കലുള്ള ഗേറ്റ് അറേകൾ ഞങ്ങൾക്ക് ഗേറ്റുകളുടെ ഒരു വിസ്തീർണ്ണം ഉണ്ട് അതിനാൽ നിങ്ങൾ വിഭജനം നടത്തുമ്പോൾ നിങ്ങൾ പാർട്ടീഷനുകൾ സൃഷ്ടിക്കുന്നു നിങ്ങൾ ഓരോ പാർട്ടീഷൻ ചെയ്ത ഘടകങ്ങളും എവിടെയെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഫ്ലോർ പ്ലാനിംഗ് നിങ്ങൾ ഒരേ കാര്യം ചെയ്യുന്നു പ്ലെയ്സ്മെന്റും നിങ്ങൾ ഇതേ കാര്യം തന്നെ ചെയ്യും അതിനാൽ ഈ എല്ലാ ഘട്ടങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഗേറ്റ് അറേയിലെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒരു ഗേറ്റ് സ്ഥാപിക്കുക എന്നതാണ് അതിനാൽ ഗേറ്റ് അറേ ഡിസൈൻ ശൈലിക്ക് പാർട്ടീഷനിംഗ് ഫ്ലോർ പ്ലാനിംഗ് പ്ലെയ്സ്മെന്റ് എന്നിവയെല്ലാം ഒരുമിച്ച് ലയിപ്പിക്കാം അവ ശരിക്കും വ്യത്യസ്തമായ ഒന്നും അർത്ഥമാക്കുന്നില്ല മറിച്ച് FPGA കൾക്കാണ് എന്നിരുന്നാലും പ്രശ്നം അല്പം വ്യത്യസ്തമാണ് അതിനാൽ ഇവിടെ നിങ്ങൾ ഒരു പ്രത്യേക ഗേറ്റ് മാപ്പ് ചെയ്യുന്നില്ല FPGA കൾക്കായി ഞാൻ ഒരു ഉദാഹരണം എടുക്കട്ടെ എനിക്ക് ഇതുപോലൊരു സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് ഉണ്ടെന്ന് കരുതുക അതിനാൽ ഞാൻ ഒരു ഉദാഹരണം എടുക്കുന്നു എനിക്ക് ഇതുപോലൊരു സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക ഇവിടെ നിരവധി ഗേറ്റുകൾ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു FPGA ആയി മാപ്പ് ചെയ്യണമെന്ന് കരുതുക അവിടെ നിങ്ങൾക്ക് 4 ഇൻപുട്ട് ലുക്ക് അപ്പ് ടേബിളുകൾ ഉണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിനായി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ഗേറ്റ് ഒരു LUT ലേക്ക് മാപ്പുചെയ്യുന്നു എന്നല്ല മറിച്ച് 4 പൊതുവായ സർക്യൂട്ട് അല്ലെങ്കിൽ സബ് സർക്യൂട്ട് അതിൽ 4 ഇൻപുട്ടുകളും 1 ഔട്ട്പുട്ടും ഒരു LUT ആയി മാപ്പുചെയ്യാനാകും അതിനാൽ ഉദാഹരണത്തിന് ഈ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് സർക്യൂട്ടിന്റെ ഈ ഭാഗം ഒരു LUT ആയി മാപ്പ് ചെയ്യാൻ കഴിയും നമുക്ക് അതിനെ LUT 1 എന്നും ബാക്കി ഭാഗം വീണ്ടും 3 ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടും രണ്ടാമത്തെ LUT ഉം ആയി വിളിക്കാം അതിനാൽ FPGA കളുടെ മാപ്പിംഗ് വളരെ ലളിതമാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ നെറ്റ്ലിസ്റ്റ് ട്രീ എടുക്കുകയും നെറ്റ്ലിസ്റ്റ് ട്രീയിൽ നിന്ന് ഗ്രാഫിൽ നിന്ന് 4 ഇൻപുട്ടുകളും 1 ഔട്ട്പുട്ടും വരെ സബ് സർക്യൂട്ടുകൾ കണ്ടെത്തുകയും ഒരുതരം ഗ്രാഫ് പാർട്ടീഷനിംഗ് നടത്തുകയും ചെയ്യുന്നു അതിനാൽ ഗ്രാഫ് പാർട്ടീഷനിംഗിനായി ധാരാളം നല്ല അൽഗോരിതങ്ങൾ ഉണ്ട് അത് ശരിയായി നിലനിൽക്കുന്നു അതിനാൽ ഇതാണ് FPGA കൾക്കായി ചെയ്യുന്നത് ഇപ്പോൾ പ്ലേസ്മെന്റ് അൽഗോരിതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്ലേസ്മെന്റ് അൽഗോരിതങ്ങളെ വിശാലമായി ഈ ക്ലാസുകളായി തരംതിരിക്കാം ഒന്ന് സിമുലേഷൻ അടിത്തറയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അനുകരിച്ച അനിയലിംഗ് അനുകരിച്ച പരിണാമം അല്ലെങ്കിൽ ജനിതക അൽഗോരിതം ഫോഴ്സ് ഡയറക്റ്റഡ് പ്ലെയ്സ്മെന്റ് ഇതും നമ്മൾ നോക്കുന്ന വളരെ രസകരമായ ഒരു രീതിയാണ് പാർട്ടീഷനിംഗ് പ്രക്രിയയിൽ നിന്ന് നിങ്ങൾ പ്ലെയ്സ്മെന്റ് സൃഷ്ടിക്കുന്ന രീതികളുണ്ട് ബ്രൂയറിന്റെ അൽഗോരിതംBreuer's algorithm ചില പരിഷ്ക്കരണ ടെർമിനൽ പ്രചരണം എന്നിവയും ഉണ്ട് കൂടാതെ മറ്റ് ചില രീതികളും ക്ലസ്റ്റർ വളർച്ചയും ഉണ്ട് നിങ്ങൾക്ക് മറ്റ് വിഭാഗത്തിൽ വിഭാഗങ്ങളാക്കാനും കഴിയും അതിനാൽ ഒരു പ്രാരംഭ ക്ലസ്റ്റർ സൃഷ്ടിക്കാൻ ഇത് ഉപയോഗിക്കാം അത് ക്ലസ്റ്ററാകാം അല്ലെങ്കിൽ ഉദാഹരണത്തിന് സിമുലേറ്റ് ചെയ്ത അനിയലിംഗ് പ്രക്രിയയിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രാരംഭ പ്ലെയ്സ്മെന്റ് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഈ അൽഗോരിതങ്ങളിൽ ചിലത് നമുക്ക് നോക്കാം പ്ലേസ്മെന്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് വളരെ പ്രചാരമുള്ള ഒരു അൽഗോരിതം ആണ് സിമുലേറ്റഡ് അനിയലിംഗ് സിമുലേറ്റഡ് അനിയലിംഗിനെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു സിമുലേറ്റഡ് അനിയലിംഗിനെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മിക്കാൻ കുറച്ച് സമയം ചിലവഴിക്കാം ഞങ്ങൾ ഈ ഉപകരണം അല്ലെങ്കിൽ അൽഗോരിതം മൊഡ്യൂൾ പ്ലേസ്മെന്റ് പ്രശ്നത്തിന് എങ്ങനെ പ്രയോഗിക്കുന്നുവെന്ന് നോക്കാം അതിനാൽ സിമുലേറ്റഡ് അനിയലിംഗ് എന്നത് ലോഹങ്ങളിലോ ഗ്ലാസുകളിലോ അനിയലിംഗ് പ്രക്രിയയെ അനുകരിക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ലോഹമോ ഗ്ലാസ് പരലുകളോ സൃഷ്ടിക്കുമ്പോൾ ദ്രാവകത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഉയർന്ന താപനിലയിലേക്ക് മെറ്റീരിയൽ ഉരുകുകയും തുടർന്ന് ഒരു തണുപ്പിക്കൽ ക്രമം പിന്തുടരുകയും ചെയ്യും ദ്രാവകാവസ്ഥയെ സാവധാനം തണുപ്പിക്കുകയും മെറ്റീരിയൽ ഒടുവിൽ സ്ഫടികവൽക്കരിക്കപ്പെടുകയും നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയലിന്റെ ആകൃതി എടുക്കുകയും ചെയ്യും അതിനാൽ ഉയർന്ന താപനിലയിൽ ആറ്റങ്ങളും തന്മാത്രകളും വളരെ അസ്ഥിരമാണ് അവ വളരെ വേഗത്തിൽ ചലിക്കുന്നു പക്ഷേ താപനില കുറയുന്തോറും അവ കൂടുതൽ കൂടുതൽ സ്ഥിരത കൈവരിക്കുന്നു അതിനാൽ സമാനമായ എന്തെങ്കിലും ഇവിടെ ചെയ്തു തുടക്കത്തിൽ കാര്യങ്ങൾ മാറിയേക്കാവുന്ന ചില സാദൃശ്യങ്ങൾ വരയ്ക്കുന്നു എന്നാൽ നിങ്ങൾ സമയം നീങ്ങുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ സ്ഥിരത കൈവരിക്കും അതിനാൽ വരച്ച സമാനത നിങ്ങൾ പ്രാരംഭ പ്ലെയ്സ്മെന്റിൽ നിന്ന് ആരംഭിക്കുന്നു ഇത് മെറ്റീരിയലിന്റെ അവസ്ഥയുടെ പ്രാരംഭ ദ്രവ്യതയെ പ്രതിനിധാനം ചെയ്തേക്കാം നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാരംഭ പ്ലെയ്സ്മെന്റ് ഉപയോഗിച്ച് ആരംഭിക്കുക ഉദാഹരണത്തിന് ബ്ലോക്കുകളിലേക്ക് കൈമാറ്റം ചെയ്യുക ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് ബ്ലോക്ക് നീക്കുക ഒരു ബ്ലോക്കിന്റെ ഓറിയന്റേഷൻ മാറ്റുക തുടങ്ങിയവ പോലുള്ള നിരവധി നീക്കങ്ങൾ നിങ്ങൾ നിർവ്വചിച്ചു ഇത് വർദ്ധിച്ചുവരുന്ന മെച്ചപ്പെടുത്തലുകൾക്ക് കാരണമായേക്കാം അതിനാൽ നിങ്ങൾക്ക് ഒരു പുരോഗതി ലഭിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും ചെലവ് കുറയ്ക്കുന്ന നീക്കങ്ങൾ എല്ലായ്പ്പോഴും സ്വീകരിക്കും എന്നാൽ നിങ്ങൾ ഒരു നീക്കം നടത്തുകയാണെന്ന് എന്നാൽ ചെലവ് വർദ്ധിക്കുന്നു നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ എല്ലായ്പ്പോഴും അത്തരമൊരു നീക്കം നിരസിക്കുകയല്ല അതിനാൽ നിങ്ങൾക്ക് ആ നീക്കം നിരസിക്കാൻ കഴിയും പക്ഷേ ആ നീക്കം ആവർത്തനങ്ങളുടെ എണ്ണം കുറയുന്ന ഒരു സാധ്യതയോടെ സ്വീകരിക്കും ഈ തന്ത്രം ഒരു പ്രാദേശിക മിനിമയിൽ കുടുങ്ങുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു സാധാരണയായി സങ്കീർണ്ണമായ പ്രശ്നത്തിന് ഏത് ഒപ്റ്റിമൈസേഷൻ പ്രശ്നത്തിലും നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കും അതിനാൽ നിങ്ങൾ ഒപ്റ്റിമൈസേഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ ചെലവ് വീണ്ടും വർദ്ധിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം വീണ്ടും കുറയുന്നു അതിനാൽ നിരവധി മിനിമ പോയിന്റുകൾ ഉണ്ടാകാം തുടർന്ന് ചെലവ് കുറയ്ക്കാൻ നിങ്ങൾ തീക്ഷ്ണമായ സമീപനം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ കുടുങ്ങും എന്നാൽ നിങ്ങൾ ചില സൂക്ഷ്മതകൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ഈ ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ മറുവശത്തേക്ക് നീങ്ങുന്നു നിങ്ങൾക്ക് ഈ താഴ്വരയിൽ വീഴാനും കുറഞ്ഞ വിലയുള്ള ഈ പരിഹാരത്തിൽ എത്തിച്ചേരാനും കഴിയും നിങ്ങൾ ലോക്കൽ മിനിമ പോയിന്റുകൾ ഒഴിവാക്കുകയാണെന്ന് പറയുന്നതിന്റെ അടിസ്ഥാന ആശയം ഇതാണ് ഇവ ലോക്കൽ മിനിമ പോയിന്റുകളാണ് ഇപ്പോൾ മറ്റൊരു കാര്യം വാക്കുകൾ നീങ്ങുന്നത് കാലക്രമേണ കുറയുന്ന സംഭാവ്യതയോടെ നിങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് എങ്ങനെ നടപ്പാക്കും ഒരു പ്രോഗ്രാമിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഈ രീതിയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് താപനിലയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വേരിയബിൾ സൂക്ഷിക്കാൻ കഴിയും ഈ ഊഷ്മാവ് ഉയർന്ന മൂല്യത്തിൽ ആരംഭിച്ച് നമുക്ക് ആരംഭിക്കാം എന്ന് പറയാം 100000 വലത് എന്ന് പറയട്ടെ ഓരോ ആവർത്തനത്തിന്റെയും അവസാനത്തിൽ ഞാൻ താപനില പരിഷ്കരിക്കട്ടെ T ക്ക് തുല്യമായ T 0 95 വച്ച ഗുണിക്കുക അതിനാൽ ഓരോ ഘട്ടത്തിലും ഞാൻ ഈ താപനില ക്രമേണ കുറയ്ക്കും ഇവിടെ 100000 പോലെ ഒരു ആവർത്തനത്തിനുശേഷം അത് 95000 ആകും 7 ആവർത്തനത്തിനുശേഷം അത് കുറയും അതിനാൽ നിങ്ങൾ താപനില വാക്യങ്ങളുടെ സമയം ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ ഈ ഗുണന ഘടകത്തെ ആശ്രയിച്ച് വളവിലെ ചില ചരിവുകൾക്ക് ശേഷം ഇതും കുറയും കൂടാതെ നിങ്ങൾക്ക് ഒരു പാരാമീറ്റർ ഉപയോഗിക്കാം e−αT നമുക്ക് α ഒരു സ്ഥിരാങ്കമാണെന്ന് പറയാം അതിനാൽ ഇത് സാധ്യതയുള്ള ഒരു മോശം നീക്കം നിങ്ങൾ അംഗീകരിക്കുന്നു അതിനാൽ ഈ പ്രോബബിലിറ്റി എന്നതിനർത്ഥം T ഉയർന്നതാണെന്ന് നിങ്ങൾ കാണുന്നു e പവർ മൈനസ് വരെ വളരെ ചെറിയ സംഖ്യ അതിനാൽ ഈ സംഖ്യ യഥാർത്ഥത്തിൽ 1 ന് അടുത്താണ് പക്ഷേ താപനില കുറയുമ്പോൾ ഇത് വീണ്ടും കുറയുകയും ചെയ്യും അതിനാൽ ഈ സാധ്യതകൾ ശരിക്കും കുറഞ്ഞു അതിനാൽ തുടക്കത്തിൽ ആവർത്തനത്തിന്റെ പ്രാരംഭ ഭാഗങ്ങളിലേക്ക് വാക്കുകൾ പല പ്രാവശ്യം നീങ്ങുന്നത് അംഗീകരിക്കാമെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ സമയം പുരോഗമിക്കുമ്പോൾ താപനില കുറയുന്നു അതിനാൽ ഇവിടെ ഞങ്ങൾ സാധ്യത കുറയ്ക്കും ഒരു മോശം നീക്കം സ്വീകരിക്കുന്നതിനുള്ള സാധ്യത വീണ്ടും കുറയുകയും ചെയ്യുന്നു ഇതാണ് ആശയം അതിനാൽ വികസിപ്പിച്ചെടുത്ത വളരെ പ്രചാരമുള്ള സിമുലേറ്റ് അനിയലിംഗ് ടൂളിലൊന്നാണ് ടിംബർവോൾഫ് വാസ്തവത്തിൽ കൃത്യസമയത്ത് ഒരു പോയിന്റുണ്ടായിരുന്നു പക്ഷേ ടിംബർവോൾഫ് ഏറ്റവും പ്രശസ്തമായ പ്ലേസ്മെന്റ് അൽഗോരിതം ആയിരുന്നു ഇത് പ്രധാനമായും സാധാരണ സെൽ ബേസ് ഡിസൈനുകൾക്കായി പ്ലെയ്സ്മെന്റ് സൃഷ്ടിക്കാൻ ഉപയോഗിച്ചു തീർച്ചയായും ഇത് പൊതുവായ മുഴുവൻ കസ്റ്റം ഡിസൈനുകൾക്കും ഉപയോഗിക്കാം ടിംബർ വോൾഫ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് പറയാം ഈ സിമുലേറ്റഡ് അനിയലിംഗ് പ്രക്രിയ അല്ലെങ്കിൽ അൽഗോരിതം മൊത്തത്തിലുള്ള സ്യൂഡോ കോഡ് ആണ് നമുക്ക് വ്യത്യസ്ത ഘട്ടങ്ങൾ നോക്കാം ഞാൻ സൂചിപ്പിച്ചതുപോലെ താപനില സൂചിപ്പിക്കുന്ന ഒരു വേരിയബിൾ T ഉപയോഗിക്കുന്നു ഞാൻ 100000 പറഞ്ഞ ഉദാഹരണം പോലെ ചില വലിയ മൂല്യം ഞങ്ങൾ ആരംഭിക്കുന്നു അത് പ്രാരംഭ താപനില ആയിരിക്കും നിങ്ങൾ ബ്ലോക്കുകളുടെ പ്രാരംഭ പ്ലെയ്സ്മെന്റ് ഉപയോഗിച്ച് ആരംഭിക്കുക അതിനാൽ തുടക്കത്തിൽ നമുക്ക് കഴിയും ക്രമരഹിതമായ പ്ലെയ്സ്മെന്റിൽ ആരംഭിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിശക്തിക്കായി സൃഷ്ടിച്ച ചില പ്ലെയ്സ്മെന്റ് പിന്നീട് കാണും ഇപ്പോൾ ഈ സമയത്ത് ലൂപ്പിൽ ഒരു അന്തിമ താൽക്കാലികം സൃഷ്ടിക്കാൻ കഴിയും ഒരു അന്തിമ താൽക്കാലികത നിർവ്വചിക്കാൻ കഴിയും അവസാന താപനില എനിക്ക് 0 5 ആയി നിർവചിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാം അതിനാൽ എല്ലാ ആവർത്തനത്തിലും ഞാൻ T താപനിലയെ T ഷെഡ്യൂൾ T ന് തുല്യമായി കുറയ്ക്കുന്നു ഇത് T ന് തുല്യമായ 0 95 കൊണ്ട് ഗുണിച്ചതായിരിക്കാം അതിനാൽ ടി കുറയുന്നു അതിനാൽ സമയം T അവസാന താപനിലയേക്കാൾ കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ലൂപ്പിൽ നിന്ന് പുറത്തുപോകും അല്ലെങ്കിൽ നിങ്ങൾ ആവർത്തിക്കും ഇപ്പോൾ ഓരോ താപനില മൂല്യത്തിലും നിങ്ങൾ നിരവധി ആന്തരിക ലൂപ്പുകളോ ആവർത്തനങ്ങളോ നടത്തുന്നു അതേസമയം ഓരോ താപനിലയിലും പരീക്ഷണങ്ങളുടെ എണ്ണം ഇതുവരെ പൂർത്തിയായിട്ടില്ല 100 ട്രയൽ നീക്കങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നുവെന്ന് നമുക്ക് പറയാം അതിനർത്ഥം ടി നിങ്ങൾ ഒരു ട്രയൽ മൂവ് നടത്തുന്നു നിങ്ങൾ ഒരു ഫംഗ്ഷൻ കോൾ പെർടർബ് എന്ന് വിളിക്കുന്നു ഇത് നിങ്ങളുടെ പ്ലേസ്മെന്റ് പിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു അത് നിങ്ങളുടെ പുതിയ പ്ലേസ്മെന്റായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഒരു കോസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട് നിങ്ങളുടെ പുതിയ ഭാഗം പുതിയ പ്ലെയ്സ്മെന്റ് യഥാർത്ഥ പ്ലെയ്സ്മെന്റ് എന്നിവയിൽ നിങ്ങൾ അപേക്ഷിക്കുകയും ΔC യിലെ വ്യത്യാസം കാണുകയും ചെയ്യുക ΔC നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരു മികച്ച പ്ലേസ്മെന്റ് കണ്ടെത്തി എന്നാണ് അതിനാൽ നിങ്ങൾ അത് അംഗീകരിക്കുകയും നിങ്ങളുടെ പി ആയി മാറ്റുകയും ചെയ്യുക അല്ലാത്തപക്ഷം നിങ്ങളുടെ ചെലവ് വർദ്ധിക്കുന്നത് പോസിറ്റീവ് ആണ് നിങ്ങൾ 0 മുതൽ 1 വരെയുള്ള ക്രമരഹിത സംഖ്യയാണെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ ഉപയോഗിക്കുന്നു ഒരു ക്രമരഹിത സംഖ്യ സൃഷ്ടിക്കുന്നത് അതിലും വലുതാണ് ഇത് ആ അവസ്ഥ സൃഷ്ടിക്കുന്നു ആവർത്തനത്തിന്റെ പ്രാരംഭ ഭാഗത്തേക്കുള്ള നിങ്ങളുടെ സാധ്യത വലുതാണെങ്കിൽ പക്ഷേ ടി വർദ്ധിക്കുന്നതിനനുസരിച്ച് സാധ്യത ചെറുതായിരിക്കും ഈ അവസ്ഥ അത് പരിപാലിക്കുന്നു അതിനാൽ ഈ പ്രോബബിലിറ്റി ഉപയോഗിച്ച് ക്രമരഹിതം അതിനേക്കാൾ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ മാത്രമേ ഈ മോശം നീക്കം സ്വീകരിക്കുകയുള്ളൂ ഈ പ്രക്രിയ ആവർത്തിക്കുക നോക്കൂ ഇത് വളരെ ലളിതമാണ് പ്രക്രിയ വളരെ ലളിതമാണ് അതിനാൽ ടിംബർവോൾഫിൽ പ്രാരംഭ താപനില 4 ദശലക്ഷമായി നിശ്ചയിച്ചു അവസാന താപനില 0 1 ആയിരുന്നു ഷെഡ്യൂൾ ഞാൻ പറഞ്ഞത്ര ലളിതമല്ല 0 95 ടിയിലേക്ക് പക്ഷേ ഇത് തണുപ്പിക്കൽ പ്രക്രിയ ആരംഭിക്കുമ്പോൾ പോലെ സമയത്തിനനുസരിച്ച് മാറുന്ന ചില ഗുണന ഘടകമാണ് നിങ്ങൾ 0 8 ന് തുല്യമായ ആൽഫ ടിയിൽ ആരംഭിക്കുന്നു പക്ഷേ താപനിലയുടെ ഇടത്തരം ശ്രേണിയിൽ നിങ്ങൾ അത് 0 95 ആക്കുന്നു അവസാനം നിങ്ങൾ വീണ്ടും 0 8 ആക്കും അതിനാൽ എന്താണ് സംഭവിക്കുന്നത് തണുപ്പിക്കൽ ക്രമം യഥാർത്ഥത്തിൽ ഇതുപോലെയായിരിക്കും തുടക്കത്തിൽ ഇത് ഒരു നിശ്ചിത നിരക്കിൽ തണുപ്പിക്കും തുടർന്ന് അത് നിരപ്പാക്കും തുടർന്ന് വീണ്ടും ഇവിടെ വരെ തണുക്കുന്നു അതിനാൽ ഇത് ഈ താപനില വാക്യങ്ങളുടെ സമയ വക്രത പോലെയായിരിക്കും അതിനാൽ ഇത് പരീക്ഷണത്തിലൂടെ തീരുമാനിക്കുകയോ എത്തിച്ചേരുകയോ ചെയ്തു അതിനാൽ വിവിധ തരത്തിലുള്ള ഷെഡ്യൂൾ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് രചയിതാക്കളായ സെചെൻ സംഗിയോവന്നി വിൻസെന്റെല്ലി എന്നിവർ ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ പ്ലെയ്സ്മെന്റിന് ഏറ്റവും മികച്ചതാണെന്ന് കണ്ടെത്തി അതിനാൽ പെർടർബ് ഫംഗ്ഷനിൽ അവർ 3 വ്യത്യസ്ത ഇതര നീക്കങ്ങൾ ഉപയോഗിച്ചു ഈ M1 M2 M3 ഈ M1 നിങ്ങൾ ഒരു ബ്ലോക്ക് ക്രമരഹിതമായി തിരഞ്ഞെടുത്ത ബ്ലോക്ക് ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റുമെന്ന് സൂചിപ്പിക്കുന്നു ക്രമരഹിതമായി തിരഞ്ഞെടുത്ത ഈ ബ്ലോക്കും പുതിയ ലൊക്കേഷനും കാണുക രണ്ടാമത്തെ നീക്കം M2 പറയുന്നത് നിങ്ങൾ രണ്ട് റാൻഡം ബ്ലോക്കുകൾ എടുക്കുന്നു നിങ്ങൾ ലൊക്കേഷനുകൾ പരസ്പരം മാറ്റുന്നു എന്നാണ് ക്രമരഹിതമായി നിങ്ങൾ ഒരു ബ്ലോക്ക് എടുക്കുന്നു നിങ്ങൾ ഓറിയന്റേഷൻ മാറ്റുമെന്ന് മൂന്നാമത്തെ നീക്കം പറയുന്നു ഓറിയന്റേഷൻ എന്നാൽ നിങ്ങൾ ഒരു മിറർ ഇമേജ് എടുക്കുന്നു മിറർ ഇമേജ് എന്നാൽ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒന്നുകിൽ x ദിശയിൽ ഒരു മിറർ എടുക്കുക അല്ലെങ്കിൽ x ദിശയിൽ നന്നായി തിരിക്കുക Y ദിശയിൽ ഭ്രമണം ചെയ്യുന്നത് മുഴുവൻ കസ്റ്റം ഡിസൈനിനും ബാധകമാണ് സ്റ്റാൻഡേർഡ് സെല്ലുകൾക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല കാരണം സ്റ്റാൻഡേർഡ് സെല്ലുകളിൽ VDD മുകളിലും ഗ്രൌണ്ട് അടിയിലും പ്രവർത്തിക്കുന്നു നിങ്ങൾ ഈ രീതിയിൽ കറങ്ങുകയാണെങ്കിൽ നിലം ഉയരും വിഡിഡി താഴേക്ക് പോകും പക്ഷേ പൊതുവായ സമ്പൂർണ്ണ ആചാരത്തിന് നിങ്ങൾക്ക് ഇത് നന്നായി ചെയ്യാം ഈ നീക്കങ്ങൾ M1 M2 M3 വീണ്ടും ക്രമരഹിതമായി തിരഞ്ഞെടുക്കുകയും M3 അത് ചെയ്ത രീതി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഈ M1 നിങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നതെല്ലാം നിരസിക്കപ്പെട്ടു ഉദാഹരണത്തിന് നീക്കാൻ നിങ്ങൾ ക്രമരഹിതമായി ഒരു പുതിയ സ്ഥലം തിരഞ്ഞെടുക്കുന്നു പക്ഷേ പുതിയ സ്ഥലം ഇതിനകം തന്നെ കൈവശപ്പെടുത്തിയിരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല അതിനുശേഷം നിങ്ങൾ M3 പരീക്ഷിച്ചുനോക്കൂ ഇത് പിന്തുടർന്ന ഒരു തന്ത്രമായിരുന്നു അതിനാൽ ചില ചിത്രീകരണങ്ങൾക്ക് ഈ ചിത്രങ്ങൾക്ക് സാധാരണ കോശങ്ങളുണ്ട് M1 നീക്കം പറയുന്നുവെങ്കിൽ അതിനാൽ ഞാൻ ക്രമരഹിതമായി ഒരു ബ്ലോക്ക് എടുക്കുന്നു ഞാൻ അതിനെ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നു ഈ ബ്ലോക്ക് ഇവിടെ നീക്കുമെന്ന് നമുക്ക് പറയാം ക്രമരഹിതമായി ഇതും ഇതും പറയാൻ എനിക്ക് രണ്ട് ബ്ലോക്കുകൾ എടുക്കാൻ കഴിയുമെന്ന് ഈ M2 പറയുന്നു സ്ഥലം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അവ കൈമാറ്റം ചെയ്യും ഞാൻ ഈ ബ്ലോക്ക് ഇവിടെ കൊണ്ടുവരും ഞാൻ ഈ ബ്ലോക്ക് ഇങ്ങോട്ടും M3 ഉം നീക്കും ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഒരു മിറർ ഇമേജ് എടുക്കും അതായത് 1 ഇടത് 2 ഒരു വലത് അത് 2 അല്ലെങ്കിൽ 1 ആകും അല്ലെങ്കിൽ എനിക്ക് y ദിശയിൽ പ്രതിഫലിപ്പിക്കാനും കഴിയും അതിനാൽ ഈ 3 4 3 4 ആയി തുടരും പക്ഷേ ലംബമായി അതിന്റെ ഓറിയന്റേഷൻ മാറും അതിനാൽ ഈ രീതിയിൽ ബ്ലോക്ക് തിരിക്കും പക്ഷേ വീണ്ടും ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് സെല്ലിന് ഇത്തരത്തിലുള്ള ലംബ ഭ്രമണത്തിന് അർത്ഥമില്ല ഈ റൊട്ടേഷൻ ഇത് പൂർണ്ണ കസ്റ്റം ഡിസൈൻ സ്റ്റൈൽ പ്ലെയ്സ്മെന്റിന് മാത്രമേ അനുവദിക്കൂ ഇപ്പോൾ നീക്കങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇതുപോലെ ചെയ്തു ആദ്യം ടിംബർവോൾഫ് M1 നും M2 നും ഇടയിൽ ഒരു ചലനം തിരഞ്ഞെടുത്തു എന്നാൽ M1 ന്റെ സംഭാവ്യത 80 ശതമാനവും 4 ൽ 5 ഉം M2 ന്റെ സാധ്യത 20 ശതമാനവും 1 ഉം 5 ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ M1 തിരഞ്ഞെടുക്കുകയും അത് നിരസിക്കപ്പെടുകയും ചെയ്താൽ അതിനർത്ഥം നിങ്ങൾക്ക് അത് നീക്കാൻ കഴിയില്ല തുടർന്ന് ടൈപ്പ് M3 ഒരു നീക്കം സാധ്യതാ 0 1 10 ശതമാനം പ്രോബബിലിറ്റിയോടെയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ചലനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ട് ഒരു മൊഡ്യൂൾ എത്ര ദൂരം അടിച്ചേൽപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട് സ്ഥാനഭ്രംശം വരുത്താം അനിയലിംഗ് പ്രക്രിയയുടെ സവിശേഷതകൾ അനുകരിക്കാൻ ഞാൻ പറഞ്ഞതുപോലെ ഏത് ജോഡി മൊഡ്യൂൾ പരസ്പരം മാറ്റാം നീങ്ങുന്നു സമീപത്തുള്ള ബ്ലോക്കുകൾക്ക് മാത്രമേ ഈ ആശയത്തെ ചുറ്റാൻ കഴിയൂ അതിനാൽ ഇവിടെ ഞങ്ങൾ ഒരു പരിധി ഉപയോഗിക്കുന്നു ആശയം ഇതാണ് റേഞ്ച് ലിമിറ്റർ ഒരു ചതുരാകൃതിയിലുള്ള പ്രദേശം പോലെയാണ് നിങ്ങൾ ഒരു ചതുരാകൃതിയിലുള്ള സ്ഥലം ചതുരാകൃതിയിലുള്ള ജാലകം സങ്കൽപ്പിക്കുന്നത് പോലെ അതിനാൽ തുടക്കത്തിൽ നിങ്ങൾ ഈ R ഉപയോഗിച്ച് ആരംഭിക്കുന്നു ഇത് മുഴുവൻ ലേ ഔട്ട് ഏരിയയും ഉൾക്കൊള്ളുന്നു അതായത് R നുള്ളിൽ എവിടെയും നീക്കങ്ങൾ അനുവദനീയമാണ് എന്നാൽ ആവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ R ന്റെ വലുപ്പം ചെറുതും ചെറുതുമായിത്തീരും അതിനാൽ ഒരു ഘട്ടത്തിലെ ശ്രേണി പൊരുത്തപ്പെടാത്തതായിരിക്കാം അത് അർത്ഥമാക്കുന്നത് ഈ ചതുരാകൃതിയിലുള്ള പ്രദേശം സൂചിപ്പിച്ചിരിക്കുന്ന ഈ പ്രദേശത്ത് നിങ്ങൾക്ക് മാത്രമേ നീങ്ങാൻ കഴിയൂ അതിനപ്പുറം അല്ല അതിനാൽ താപനില കുറയുമ്പോൾ വിൻഡോയുടെ വലുപ്പം ചുരുങ്ങുന്നു അതിനാൽ ഇതാണ് ആശയം അതിനാൽ കോസ്ററ് ഫങ്ക്ഷന് അതിൽ 3 ഘടകങ്ങളുണ്ട് ആദ്യത്തേത് എല്ലാ വലകളുടെയും കണക്കാക്കിയ ദൈർഘ്യത്തിന്റെ തൂക്കമുള്ള തുകയാണ് വലകളുടെ വില എങ്ങനെ കണക്കാക്കാമെന്ന് ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് പ്ലേസ്മെന്റ് സമയത്താണ് ചെലവ് രണ്ട് നിങ്ങൾ ഇവിടെ ഇല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ഓവർലാപ്പിംഗ് അനുവദിക്കുന്നില്ല എന്നാൽ ഓവർലാപ്പിംഗ് അനുവദനീയമല്ലെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഓവർലാപ്പിംഗ് അനുവദിക്കുന്നതിനുപകരം നിങ്ങൾ എന്തുചെയ്യും ബ്ലോക്കുകൾ ഓവർലാപ്പ് ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ ഓവർലാപ്പ് ചെയ്യുന്നതിനുള്ള പിഴ വളരെ ഉയർന്ന വിലയായിരിക്കും അതിനാൽ നിങ്ങൾ ചെലവ് കുറയ്ക്കുമ്പോൾ എവിടെയും ഓവർലാപ്പിംഗ് കേസുകൾ യാന്ത്രികമായി ഇല്ലാതാക്കപ്പെടും അതിനാൽ ചെലവ് രണ്ട് ഓവർലാപ്പിംഗിനുള്ള പിഴയാണ് കൂടാതെ ചിലവ് വ്യത്യസ്ത സ്റ്റാൻഡേർഡ് സെൽ വരികളിലുടനീളമുള്ള അസമമായ ദൈർഘ്യത്തിനുള്ള പിഴയാണ് കാരണം എല്ലാ വരികളും ഏകദേശം ഒരേ വീതിയിൽ ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിൽ a ചെലവിന്റെ പിഴ 3 അതിനാൽ ഇതാണ് ഞാൻ സൂചിപ്പിച്ചത് കോസ്റ്റ് ഫംഗ്ഷൻ കോസ്റ്റ് 2 ഓവർലാപ്പിംഗിന് പിഴ ചുമത്തുന്നു അതുപോലെ തന്നെ വില 3 വരികളുടെ അസമമായ നീളത്തെ ശിക്ഷിക്കുന്നു അതിനാൽ ചുരുക്കത്തിൽ ടിംബെർവോൾഫ് വളരെ വിജയകരമായ പ്ലെയ്സ്മെന്റ് ടൂളുകളിൽ ഒന്നാണ് അത് സാധാരണ സെൽ ബേസ് ഡിസൈനുകൾക്കായി ഉപയോഗിച്ചിരുന്നു എന്നാൽ ചില പരിഷ്ക്കരണങ്ങളോടെ ഇത് പൂർണ്ണ കസ്റ്റം പോലുള്ള മറ്റ് ഡിസൈൻ ശൈലികൾക്കും ഉപയോഗിക്കാം അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു ഞങ്ങളുടെ അടുത്ത പ്രഭാഷണങ്ങളിൽ ഞങ്ങളുടെ അടുത്ത പ്രഭാഷണത്തിൽ മറ്റ് ചില സാങ്കേതികതകളോ അല്ലെങ്കിൽ അൽഗരിതങ്ങളോ നമ്മൾ നോക്കും